ഹലോ പ്രവർത്തനജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ഞങ്ങളുടെ ഇന്നത്തെ ആമുഖ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങൾ മുതൽ മെക്കാനൊബയോളജി പഠിക്കാൻ ഉപയോഗപ്രദമാകുന്ന ചില ഉപകരണങ്ങളും സാങ്കേതികതകളും ഞാൻ ചർച്ചചെയ്യാൻ തുടങ്ങി ആദ്യ പ്രഭാഷണത്തിൽ ഞാൻ ഹൈഡ്രോജെല്ലുകളെ പരിചയപ്പെടുത്തി എന്താണ് ഹൈഡ്രോജെല്ലുകൾ അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ട്യൂണബിലിറ്റി കാഠിന്യത്തിന്റെ രേഖീയത മുതലായവ കണക്കിലെടുക്കുന്നതിന് നിങ്ങൾ പിന്തുടരേണ്ട ചില പ്രത്യേക സവിശേഷതകൾ എന്താണ് ഹൈഡ്രോജെല്ലുകൾക്ക് ശേഷം ഞാൻ എ എം അവതരിപ്പിച്ചു പക്ഷേ ഇത്തവണ എ എമ്മിനൊപ്പം സാമ്പിളുകളുടെ സവിശേഷതകളും കാഠിന്യവും എങ്ങനെ അളക്കാമെന്നും കൂടാതെ എങ്ങനെ ചിത്രീകരിക്കാമെന്നുമാണ് ഞാൻ പറയുന്നത് എഎഫ്എമ്മിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ അൺഫോൾഡിങ് നന്നായി ചെയ്യാൻ കഴിയും എഎഫ്എം രണ്ടു രീതിയിൽ പ്രവർത്തിപ്പിക്കാം ഇമേജിംഗ് മോഡുകളായ കോൺടാക്റ്റ് മോഡിൽ അല്ലെങ്കിൽ ടാപ്പിംഗ് മോഡിൽ ഇതാണ് രണ്ട് ഇമേജിംഗ് മോഡുകൾ പരന്ന കട്ടിയുള്ള സാമ്പിളുകൾക്ക് കോൺടാക്റ്റ് മോഡ് കൂടുതൽ അനുയോജ്യമാണ് അവിടെ സാമ്പിളിന് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം നിങ്ങൾ സാമ്പിളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്നാൽ ടാപ്പിംഗ് മോഡിൽ ഇടയ്ക്കിടെയുള്ള സമ്പർക്കമാണുള്ളത് ഇവിടെ നിയന്ത്രിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് സെറ്റ് പോയിന്റാണ് അതിനാൽ അയവുള്ളതും ലാറ്ററൽ ഫ്രിക്ഷൻ മൂലം സ്ഥാനചലനം സംഭവിക്കുന്നതുമായ കോശങ്ങളുടെ ഇമേജിങ്ങിന് ടാപ്പിംഗ് മോഡ് കൂടുതൽ അനുയോജ്യമാണ് സാമ്പിളുകൾ ജെല്ലുകൾ കോശങ്ങൾ മുതലായവയുടെ കാഠിന്യം അളക്കുന്നതിന് ഫോഴ്സ് ഓപ്പറേഷൻ മോഡ് ഉപയോഗിക്കുന്നു പ്രോട്ടീൻ അൺഫോൾഡിങ്ങിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇതേ മോഡാണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ ഇലാസ്റ്റികതയുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു പതനത്തിനു ശേഷം ഇതേപോലെയുള്ള ഒരു വക്രം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഇൻഡെന്റും പിൻവലിക്കൽ സോണുകളും തമ്മിലുള്ള കർവ് വേർതിരിച്ചറിയാൻ കഴിയില്ല കൂടാതെ കോശത്തെ പോലെ വിസ്കോഇലാസ്റ്റിക് മെറ്റീരിയലുകൾക്ക് ഇതുപോലുള്ള ഒരു വക്രം ലഭിക്കും പക്ഷേ ഇൻഡന്റേഷന്റെ ഒരു പാതയും പിൻവലിക്കലിന്റെ ഒരു പാതയും ഉണ്ട് ഇത് വിസ്കസ് ഡാമ്പിംഗ് മൂലമാണ് രേഖാങ്കിതപേശികളുടെ കാഠിന്യം അളക്കുമ്പോൾ അവയുടെ കാഠിന്യം പ്ലസ് മൈനസ് ബ്ലെബിസ്റ്റാറ്റിന്റെ plusminus blebbistatin സാന്നിധ്യത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സ്റ്റിഫ്നെസ്സ് ആക്സിസ് ഇത് ഫ്രിക്യുൻസി ആക്സിസ് ഇത് ഔട്ട്പുട്ട് ഡാറ്റ നിയന്ത്രിതകോശങ്ങളിലെ അല്ലെങ്കിൽ ബ്ലെബ്ബിസ്റ്റാറ്റിൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത കോശങ്ങളിലെ സ്റ്റിഫ്നെസ്സ് ഇങ്ങനെയായിരിക്കും ബ്ലെബ്ബിസ്റ്റാറ്റിൻ ഉപയോഗിച്ച കോശങ്ങളിലെ കർവ് ഇടത്തേക്ക് മാറും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോശങ്ങൾ മൃദുവാകും അതിനാൽ ബ്ലെബ് കൊണ്ട് ട്രീറ്റ് ചെയ്ത കോശങ്ങൾ മൃദുവായി കാണപ്പെടുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ബ്ലെബിസ്റ്റാറ്റിൻ മയോസിൻ പ്രവർത്തനത്തെ തടയുമ്പോൾ എന്തുകൊണ്ടാണ് മൃദുവായ കോർട്ടെക്സ് ഉണ്ടാകുന്നത് കാരണം ഇപ്രകാരമാണ് കോശത്തെ പിരിമുറുക്കമുള്ള ഒരു ചരടായി കരുതുന്നുവെങ്കിൽ അതിനെ ഒരു സബ്സ്ട്രേറ്റിന്റെ രണ്ട് പോയിന്റുകളിൽ നങ്കൂരമിടുന്നു എന്താണ് കാണുന്നത് സ്ട്രിംഗിന് അതിന്റേതായ മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ ഉണ്ട് സ്ട്രിംഗിന് മുകളിൽ കുറച്ച് ടെൻഷൻ കൊടുക്കുന്നു ഈ ടെൻഷന്റെ ഉറവിടം എന്താണ് നിങ്ങൾ ഇതിനെ സബ്സ്ട്രേറ്റിലേക്ക് നങ്കൂരമിടുകയാണെങ്കിൽ ഈ ടെൻഷന്റെ ഉറവിടം ആക്റ്റോമയോസിൻ സങ്കോചമാണ് നിങ്ങൾ ടെൻഷൻ തടഞ്ഞാൽ ഒരർഥത്തിൽ ഞാൻ ടെൻഷനെ നിങ്ങൾ അളന്ന മൊത്തത്തിലുള്ള കാഠിന്യവുമായി ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ അവ ഒരു നേർരേഖയായിരിക്കണം വലിയ അളവിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അതായത് നിങ്ങൾ സ്ട്രിംഗ് വലിക്കുകയാണെങ്കിൽ അതിനെ രൂപഭേദം വരുത്താൻ അധിക ശക്തി ആവശ്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ട്രിംഗ് കടുപ്പമുള്ളതായി തോന്നുന്നു അതിനാൽ കോശത്തിന്റെ കാഠിന്യം സങ്കോചത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഇത് പറയുന്നു ഒരു കോശം എത്രമാത്രം കൺട്രാക്ടയിലാണെന്ന് മനസ്സിലാക്കാൻ കോശത്തിന്റെ കാഠിന്യം അളക്കുന്നതിലൂടെ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ കോർട്ടിക്കൽ കോൺട്രാക്റ്റിലിറ്റി മാറുന്നില്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിലുള്ള സങ്കോചത്തിന്റെ ഫലം കാണാൻ കഴിയില്ല കോശത്തിൻറെ മധ്യഭാഗത്ത് ഉള്ള സ്ട്രെസ് ഫൈബറുകളെ അപ്പ് റെഗുലേറ്റ് ചെയ്യാൻ റോ അല്ലെങ്കിൽ റോക്ക് പ്രോട്ടീനുകൾ ഉണ്ട് ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്നാണ് നോക്കുന്നത് ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള സ്ട്രെസ് ഫൈബറുകൾ മൊത്തത്തിലുള്ള കാഠിന്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭാവന ചെയ്യുന്നില്ല അതിനാൽ കാഠിന്യത്തെ അളക്കുന്നതിൽ നിന്ന് വിഭിന്നമായി കൺട്രാക്റ്റിലിറ്റി പരിശോധിക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് കൺട്രാക്റ്റിലിറ്റി ഏറ്റവും നന്നായി കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളിലൊന്നാണ് ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ടിഎഫ്എം ടിഎഫ്എം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം ഇ എന്ന പ്രത്യേക സ്റ്റിഫ്നെസ്സോടുകൂടിയുള്ള ഒരു സബ്സ്ട്രേറ്റിനു മുകളിൽ ഒരു കോശം ഇരിക്കുകയാണെങ്കിൽ കോശത്തിൻറെ ഒരു ഭാഗം ഇവിടെ എടുക്കാം നിങ്ങൾക്കുള്ളത് കോശത്തിൻറെ ഒരു ഭാഗമാണ് കോശം ആന്തരിക ശക്തികളെ പ്രയോഗിക്കുന്നു ഇതാണ് നിങ്ങളുടെ സ്ട്രെസ് പി യുടെ ഉറവിടം ഫോക്കൽ അ ഡീഹഷനിലേക്ക് പോകുന്ന പകരുന്ന കോശങ്ങളുടെയും ജെല്ലുകളുടെയും ഇന്റർഫേസിലെ സബ്സ്ട്രേറ്റിൻറെ ട്രാക്ഷൻ വഴി ഈ ശക്തികളെ സ്ഥിരപ്പെടുത്തുന്നു ഇത് നിങ്ങളുടെ t̅ ആണ് അതിനാൽ പി ക്ക് ആവശ്യമായ ഒരു ഫോഴ്സ് ബാലൻസ് ഉണ്ടായിരിക്കണം ഞാൻ മുഴുവൻ കോശവും ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു ത്രിമാന ഉപരിതലമാണ് തുടർന്ന് ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ പി കൊടുക്കുകയാണെങ്കിൽ അതായത് A̅ t̅ ക്ക് തുല്യമായിരിക്കണം ഈ t̅ ൻറെ അടിസ്ഥാന വിസ്തീർണ്ണം എ ബി യിൽ എടുത്തതായിരിക്കണം ഇതാണ് ഫോഴ്സ് ബാലൻസ് ഫ്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ചെയ്യുന്നതിനുള്ള അടിസ്ഥാന പ്രത്യയശാസ്ത്രമാണിത് എന്നാൽ ഈ ഫ്രാക്ഷനുകളെയോ ഈ ശക്തികളെയോ സബ്സ്ട്രേറ്റിൽ എങ്ങനെയാണ് അളക്കുന്നത് Refer slide time 0842 നിങ്ങൾ നിർമ്മിച്ച പിഎ ജെല്ലുകളിലോ പിഡിഎംഎസ് കോശങ്ങളിലോ കുറച്ച് ഫ്ലൂറസെന്റ് മുത്തുകൾ ഇടുകയാണ്സാധാരണഗതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മുത്തുകൾ ഉപരിതലത്തിൽ എങ്ങനെ ലഭിക്കും നിങ്ങൾ അകത്ത് മുത്തുകളുള്ള പിഎ ജെൽ അഥവാ പോളിഅമൈഡ് ജെൽ പോളിമറൈസ് ചെയ്യുക തീർച്ചയായും പ്രതലങ്ങളിൽ ധാരാളം മുത്തുകൾ ഉണ്ട് എന്നാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണ്ടത് ഈ ജെൽ തലകീഴായി പോളിമറൈസ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ജെൽ തലകീഴായി പോളിമറൈസ് ചെയ്താൽ ഗുരുത്വാകർഷണം കാരണം ഈ മുത്തുകളെല്ലാം ജെല്ലിന്റെ മുകൾ ഭാഗത്ത് തുടരും ഞാൻ 2 ഡിയിൽ കോശം വരയ്ക്കുകയും ഇത് നിങ്ങളുടെ സബ്സ്ട്രേറ്റുമാണെങ്കിൽ മുകളിലെ ഉപരിതലത്തിൽ കോശത്തിന്ചുറ്റും ഈ മുത്തുകളെല്ലാം ഇരിക്കുന്നു അതിനാൽ വ്യക്തിഗത ഫോക്കൽ അഡീഹഷനുകളിലൂടെ കോശങ്ങൾ ഉള്ളിലേക്ക് ശക്തി പ്രയോഗിക്കുന്നു ഈ നാല് ഫോക്കൽ അഡീഹഷനുകളിലൂടെയാണ് കോശങ്ങൾ ഒരു പ്രത്യേകദിശയിൽ ശക്തികൾ പ്രയോഗിക്കുന്നത് അതിനാൽ ഈ സബ്സ്ട്രേറ്റുകളിൽ കോശങ്ങളെ വെച്ചതിന് ശേഷം സ്ട്രെസ്ഡ് കോൺഫിഗറേഷനിൽ ഒരു ചിത്രം എടുക്കുക ഈ കറുത്ത കുത്തുകൾ സ്ട്രെസ് കോൺഫിഗറേഷനിലെ മുത്തുകളുടെ സ്ഥാനങ്ങളാണെന്ന് സങ്കൽപ്പിക്കുക പിന്നീട് ട്രിപ്സിൻ ഉപയോഗിച്ച് ഞാൻ കോശങ്ങൾ നീക്കംചെയ്യുന്നു കോശങ്ങൾ ശക്തി പ്രയോഗിക്കുന്ന യഥാർത്ഥ ദിശകളാണിതെങ്കിൽ ഞാൻ കോശങ്ങൾ നീക്കം ചെയ്തുകഴിഞ്ഞാൽ ഈ മുത്തുകൾ ബാഹ്യ ദിശകളിലേക്ക് നീങ്ങും പക്ഷേ കോശങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള മുത്തുകൾക്ക് സ്ഥാനചലനം ഫലപ്രദമാകണമെന്നില്ല പക്ഷേ കോശത്തിന് സമീപമുള്ള ഈ മുത്തുകൾ ബാഹ്യ ദിശകളിലേക്ക് നീങ്ങും ഇതിൽ നിന്ന് എനിക്ക് സമ്മർദ്ദമുള്ളതും സമ്മർദ്ദമില്ലാത്തതുമായ ആകൃതികളിലെ മുത്തുകളുടെ സ്ഥാനചലനം ട്രാക്കുചെയ്യാൻ കഴിയും സമ്മർദ്ദമില്ലാത്ത കോൺഫിഗറേഷനുകൾ കോശം നീക്കംചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഗറേഷനാണ് എന്നാൽ കോശം സജീവമായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഗറേഷനാണ് സമ്മർദ്ദമുള്ള കോൺഫിഗറേഷൻ ഒരിക്കൽ മുത്തുകളുടെ സ്ഥാനചലനം ലഭിച്ചുകഴിഞ്ഞാൽ ലീനിയർ ഇലാസ്തികത സിദ്ധാന്തം ഉപയോഗിച്ച് ബലം വിതരണം എന്താണെന്ന് കണ്ടെത്താനാകും അനേകം വ്യത്യസ്തതരം കോശങ്ങൾക്കായി ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ഒരു പേശി കോശമാണെങ്കിൽ തുല്യവും വിപരീതവുമായ ദിശയിൽ വിശാലമായ രണ്ട് വലിയ ശക്തികളെ കാണാം എന്നാൽ ഈ ശക്തികളുടെ പ്രയത്നത്തിന്റെ പോയിന്റുകൾ ഡി അകലം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു ഇത് ഒരു പേശി കോശത്തിനുള്ളതാണ് ഇത് ഫോഴ്സ് ഡൈപോളിന് തുല്യമാണ് ഒരു ദിശയിൽകൂടി സങ്കോചപരമായ ശക്തികൾ പ്രയോഗിക്കാൻ കഴിയുന്നതിന് ഒരു ഉദാഹരണമാണിത് ഫൈബ്രോബ്ലാസ്റ്റുകൾ പോലെ നീളമേറിയ കോശങ്ങൾക്ക് അല്ലെങ്കിൽ പേശികോശങ്ങൾക്ക് ഇത് ബാധകമാണ് Refer slide Time 1317 അസ്ഥികോശങ്ങൾക്കായി നിങ്ങൾ ഇതേ പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റുകളുടെ രൂപം കൂടുതൽ ബഹുഭുജ സ്വഭാവമാണ് കാണിക്കുന്നത് ബലം കൊടുക്കുകയാണെങ്കിൽ ബലം വിതരണം റേഡിയൽ സിമെട്രിയിലായിരിക്കും നടക്കുന്നത് ഈ പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ധാരാളം ആളുകൾ സങ്കോചവും കാഠിന്യവും തമ്മിൽ ഒരു രേഖീയ ബന്ധമുണ്ടെന്ന് വീണ്ടും തെളിയിച്ചു നിങ്ങൾക്ക് നേരെയുള്ള രേഖീയ ബന്ധം ഉണ്ടായിരിക്കണം നിങ്ങൾ സെൽ ലൈനുകളെ സബ്സ്ട്രേറ്റ് സ്റ്റിഫ്നെസ്സ് ഉപയോഗിച്ച് പ്ലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിഫ്നെസ്സ് കൂടുന്നതിനനുസരിച്ച് കൺട്രാക്ടിലിറ്റിയും കൂടുന്നതായി കാണാം ഈ സമീപനം വളരെ ശക്തമാണ് എന്നാൽ നമ്മൾ ചർച്ച ചെയ്ത ഈ പ്രത്യേക തരം ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പിയിൽ അതായത് 2 ഡി ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പിയിൽ അനുമാനിക്കുന്നത് ഒരു സബ്സ്ട്രേറ്റിലുള്ള കോശം എക്സ് വൈ പ്ലെയിനിൽ അകത്തേക്ക് ബലം ചെലുത്തുമെന്നാണ് ഇത് നിങ്ങളുടെ എക്സ് വൈ തലം നിങ്ങൾക്ക് എക്സ് വൈ ഇസഡ് X Y Z എന്നിവയുണ്ട് അതിനാൽ കോശം എല്ലാ ശക്തികളും എക്സ് വൈ തലത്തിൽ കൂടിയാണ് പ്രയോഗിക്കുന്നതെന്നത് ശരിയല്ല ഇസഡ് ദിശയിലുള്ള മുത്തുകളുടെ സ്ഥാനചലനങ്ങൾ ഇവിടെ കണക്കാക്കുന്നില്ല ഇങ്ങനെ വലിക്കുന്നതിനുപകരം കോശം ഇതുപോലൊരു ശക്തി പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ മുത്തുകൾക്ക് ഇസഡ് സ്ഥാനചലനവും ഉണ്ടാകും പക്ഷേ 3 ഡി ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പിയിൽ ഇസഡ് സ്ഥാനചലനവും കണക്കിലെടുക്കുന്നു അവിടെ കോശങ്ങൾ ജെല്ലുകളിൽ വച്ചിരിക്കുന്നു കൂടാതെ കോശത്തിന് ചുറ്റും എല്ലാ വ്യത്യസ്ത ദിശകളിലും മുത്തുകളുണ്ട് ഒപ്പം മുത്തുകളുടെ എക്സ് വൈ ഇസഡ് X Y Z ചലനം നിങ്ങൾ ട്രാക്കുചെയ്യുന്നു ഇത് തീർച്ചയായും കൂടുതൽ സങ്കീർണ്ണമാണ് ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പിയിലെ വെല്ലുവിളികൾ കണ്ടെത്തുന്നതിന് പ്രധാനപ്പെട്ട കണികാ ട്രാക്കിംഗ് അൽഗോരിതം ആവശ്യമാണ് കോശങ്ങൾ ഗ്ലാസിൽ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കാനാകുന്നതെന്ന് സങ്കൽപ്പിക്കുക കോശങ്ങളിൽ നിന്ന് കിട്ടിയ മാട്രിക്സുകളിൽ മെറ്റീരിയലിലേക്ക് മുത്തുകളെ ചേർക്കുന്നതിനുള്ള മാർഗ്ഗമില്ല മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ഫോർമുലേഷൻ ലീനിയർ ഇലാസ്റ്റിക് സബ്സ്റ്റേറ്റുകൾക്കുള്ളതാണ് നിങ്ങളുടെ മെറ്റീരിയൽ രേഖീയമായി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ വളരെ ലളിതമായ ഒരു ബദൽ സമീപനമുണ്ട് ഇതിനെ ട്രിപ്സിൻ ഡീ അഡീഹഷൻ അസ്സെ എന്ന് വിളിക്കുന്നു ഡീഅഡീഹഷൻ അസ്സേയിലെ ട്രിപ്സിൻ എന്താണ് കോശങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ പാസേജിംഗിനായി ട്രിപ്സിൻ ഉപയോഗിക്കുന്നു അതിനാൽ കോശത്തിലേക്ക് ട്രിപ്സിൻ നൽകുകയാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ അത് റൌണ്ട് ചെയ്യണം ഇതിനിടയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത കോൺഫിഗറേഷനുകൾ ഉണ്ടാകും അവിടെ റൌണ്ട് അപ്പ് വ്യാപ്തി വർദ്ധിക്കുന്നു അതിനാൽ കോശം പൂർണ്ണമായും വ്യാപിക്കുന്നതിൽ നിന്ന് ഒരു റൌണ്ട് കോൺഫിഗറേഷനിലേക്ക് പോകുന്നു Refer slide 1747 നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചലനാത്മകത ട്രാക്കു ചെയ്യാനാകും ടൈം ലാപ്സ് ഇമേജ് എടുക്കുകയാണെങ്കിൽ അതായത് ട്രിപ്സിൻ ഉപയോഗിച്ച് ഇൻകുബേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോശത്തിൻറെ ടൈം ലാപ്സ് മൂവി നിങ്ങൾക്ക് ലഭിക്കുന്നത് ടി സമയത്തിൻറെയും എ വിസ്തീർണ്ണത്തിൻറെയും ഒരു പ്ലോട്ടായിട്ടാണ് ടി പൂജ്യത്തിന് ത്തിന് തുല്യമാകുമ്പോൾ കോശത്തിൻറെ പ്രാരംഭ വിസ്തീർണ്ണം എ ആണ് ചില സമയങ്ങളിൽ ടി എടി ആണ് ഇത് ചില സമയത്ത് ടിഎഫ് ആണ് ഒടുവിൽ എഎഫ് ആണ് ഈ പ്രദേശത്തിന്റെ സാധാരണ മാറ്റം എനിക്ക് നിർവചിക്കാൻ കഴിയും എനിക്ക് ഈ സാധാരണ അളവ് A̅ ഇങ്ങനെ നിർവചിക്കാം A̅ അതിനാൽ ഞാൻ A̅ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ടി 0 ന് തുല്യമാകുമ്പോൾ എ ഫ് ന് തുല്യമാണ് എ ഐ അതിനാൽ നിങ്ങൾക്ക് 0 മുതൽ 1 വരെ പോകുന്ന ഒരു മൂല്യമുണ്ട് സമയത്തിന്റെ പ്രവർത്തനമായി നിങ്ങൾ എ ബാറിനെ A̅ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കർവ് ലഭിക്കും ഇത് ഒരു സിഗ്മോയിഡൽ കർവാണ് ഒരു സിഗ്മോയിഡൽ കർവിൽ തന്നിരിക്കുന്ന ഡാറ്റ ഇനിപ്പറയുന്ന എക്സ്പ്രഷനിലൂടെ ചേർക്കാനാകും എ ബാർ A̅ എന്ന പ്രത്യേക ഫംഗ്ഷൻ ഈ എക്സ്പ്രഷനിൽ ചേർക്കാനാകും ഇവിടെ എനിക്ക് രണ്ട് സമയസ്ഥിരത കണ്ടെത്താൻ കഴിയും ടോ 1 ഉം ടോ 2 ഉം അപ്പോൾ എന്താണ് ടോ 1 ടോ 1 ന് തുല്യമായി ടി വന്നാൽ ഈ മുഴുവൻ വേരിയബിളും പവർ 0 ആയിട്ടുള്ള ഇ ആയി മാറുന്നു അതായത് 2 ആയി മാറുന്നു അതിനാൽ 1 മൈനസ് പകുതി പകുതിയായിത്തീരുന്നു അതിനാൽ ടോ 1 എ ബാർ പകുതിയിൽ എത്തുമ്പോഴുള്ള മൂല്യത്തിന് തുല്യമായ സമയവുമായി യോജിക്കുന്നു ഒപ്പം ടോ 2 വക്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ സമയ സ്ഥിരതയാണ് എന്താണ് നിരീക്ഷിച്ചത് നിങ്ങൾക്ക് രണ്ട് സമയ സ്ഥിരാങ്കങ്ങളായ ടോ 1 ടോ 2 എന്നിവ ബാക്ക്ട്രാക്ക് ചെയ്യാൻ കഴിയും Refer slide2016 കൺട്രാക്റ്റിലിറ്റി ഇൻഹിബിറ്ററുകളുപയോഗിച്ച് കോശങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ എന്താണ് കാണുന്നത് ഇത് ടോ 1 ന്റെ മൂല്യമാണെങ്കിൽ ഇത് ടോ 1 ആണെന്നും ഇത് ടോ 2 ആണെന്നും പറയാം നിയന്ത്രിത കോശങ്ങൾക്ക് ഇത് ടോ 1 മൂല്യവും ഇത് ടോ 2 മൂല്യവും ആണ് ഈ കോശങ്ങളെ ബ്ലെബ്ബിസ്റ്റാറ്റിൻ ബ്ലെബ് പോലുള്ള സങ്കോചത്തെ തടസ്സപ്പെടുത്തുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ ഈ രണ്ട് സ്ഥിരതകളും വർദ്ധിക്കുന്നതായി കാണാം വീണ്ടും സങ്കോചത്തെ കൂട്ടുന്ന റോ റോക്ക് പാതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലൈസോഫോസ്ഫാറ്റിഡിക് ആസിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ടോ 2 ൻറെ മൂല്യം കുറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡീഅഡീഹഷൻ ടൈംസ്കെയിലുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് കൺട്രാക്റ്റിലിറ്റി അനുസരിച്ചാണ് ഒരു കോശത്തിന് കൂടുതൽ സങ്കോചമുണ്ടെങ്കിൽ ട്രിപ്സിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് വളരെ വേഗത്തിൽ റൌണ്ട് അപ്പ് ചെയ്യും അതിനാൽ ഈ സമയ സ്ഥിരതകളെ എ എം ഉപയോഗിച്ച് കാഠിന്യത്തിന്റെ മൂല്യവുമായി പരസ്പരം ബന്ധിപ്പിക്കാം ടോ പൊതുവെ കാഠിന്യവുമായി വിപരീതമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കട്ടിയുള്ളതും കൂടുതൽ സങ്കോചമുള്ളതുമായ ഒരു കോശത്തിന് അതിന്റെ ഡീഅഡീഹഷൻ സമയപരിധി കുറവായിരിക്കും ഇത് വളരെ ലളിതമായ ഒരു പരിശോധനയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം സങ്കോചം ഉണ്ടെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം മുന്നറിയിപ്പ് എന്തെന്നാൽ നിങ്ങൾ ഇവിടെ കൺട്രാക്റ്റിലിറ്റി നിർണയിക്കുന്നത് സമയ സ്ഥിരത പരോക്ഷമായി കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാതെ കോശങ്ങൾ പ്രയോഗിക്കുന്ന യഥാർത്ഥ ശക്തികളുടെ അടിസ്ഥാനത്തിലല്ല ടോ യെ സങ്കോചം മാത്രമല്ല അഡ്ഹസിവിറ്റിയും നിർണ്ണയിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൺട്രാക്റ്റിലിറ്റി സ്ഥിരമായിരിക്കുന്ന രണ്ട് അവസ്ഥകൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക സി സ്ഥിരാങ്കമാണ് പക്ഷേ അഡ്ഹസിവിറ്റി A1 ൽ നിന്ന് A2 ലേക്ക് മാറുന്നു ഇവിടെ എ2 എ1 നേക്കാൾ വലുതാണ് അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കുന്നതെന്തെന്നാൽ ഇത് എ1 ഉള്ള ഒരു കോശത്തിൻറെ ഡീഅഥീഷൻ പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾ ഇത് എ2 ആക്കുമ്പോൾ ഈ ഡീഅഥീഷൻ വൈകും അതിനാൽ ഇത് എ1 ന്റെ മൂല്യമാണ് ഇത് എ2 ന്റെ മൂല്യവും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡീഅഥീഷൻ പ്രതികരണത്തെ കൺട്രാക്റ്റിലിറ്റി മാത്രമല്ല അഡ്ഹസിവിറ്റിയും നിർണ്ണയിക്കുന്നു വിൻക്യുലിൻറെ അമിത എക്സ്പ്രഷൻ മൂലം അഡ്ഹസിവിറ്റിയും മാറ്റാൻ കഴിയും ഫോക്കൽ അഥീഷൻ പ്രോട്ടീനായ വിൻകുലിൻ ഒരു ഘടനാപരമായ പ്രോട്ടീനാണ് പക്ഷേ പത്ത് മടങ്ങ് കൂടുതൽ സജീവമായ ട്രിപ്സിൻ ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയും അതുകൊണ്ട് ഫോക്കൽ ഡീഅഥീഷൻന്റെ ചോപ്പിംഗ് നിരക്ക് കൂടുതലായിരിക്കും അതിനാൽ ട്രാക്ഷൻ ഫോഴ്സിനെ ടിഎഫ്എമ്മുമായും ഡീഅഥീഷൻ അസ്സേയോടും താരതമ്യപ്പെടുത്തി അവർ സെൽ ലെവൽ സങ്കോചത്തെ കണക്കാക്കുന്നു ഒരൊറ്റ സ്ട്രെസ് ഫൈബറിലെ കൺട്രാക്റ്റിലിറ്റി ഇങ്ങനെ കണക്കാക്കാൻ കഴിയുമോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൊത്തത്തിലുള്ള കോശസങ്കോചത്തിൽ ഒരൊറ്റ സ്ട്രെസ് ഫൈബറിന്റെ സംഭാവന എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ ടിഎഫ്എം അല്ലെങ്കിൽ ഡീഅഥീഷൻ അസ്സെ കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ലേസർ അബ്ളേഷൻ എന്ന ഒരു പുതിയ സാങ്കേതികത അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ലൈഫ് ആക്റ്റ് പെപ്ടൈഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫെക്ട് ചെയ്ത കോശങ്ങൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇവ വളരെ പ്രധാനപ്പെട്ട സ്ട്രെസ് ഫൈബറുകളാണ് ലേസർ അബ്ളേഷനിൽ സ്ട്രെസ് ഫൈബറിൻറെ ഒരു പോയിന്റിൽ ലേസർ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നു ഒരു സ്ട്രെസ് ഫൈബറിൽ ഒരു പോയിന്റിൽ ലേസർ ലൈറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഊർജ്ജം വളരെ ഉയർന്നതാണ് അതിനാൽ മെറ്റീരിയൽ ലോക്കലി ബാഷ്പീകരിക്കപ്പെടുന്നു ഫെംടോസെക്കൻഡ് ലേസർ ഉപയോഗിച്ച് ഒരു നാനോമീറ്റർ വലുപ്പമുള്ള ഇൻട്രാ സെല്ലുലാർ ടാർഗെറ്റിലേക്ക് വെളിച്ചം കേന്ദ്രീകരിക്കുക ഈ പ്രകാശം വളരെയധികം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ കേന്ദ്രീകരിച്ച പോയിന്റിലെ സാമ്പിളിന്റെ ബാഷ്പീകരണത്തിലേക്ക് ഇത് നയിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എനിക്ക് ഒരു കോശം ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഒരൊറ്റ പോയിന്റിൽ ഞാൻ പ്രകാശം കേന്ദ്രീകരിച്ച സ്ട്രെസ് ഫൈബറാണിത് അതിനാൽ സമയത്തിന്റെ പ്രവർത്തനമായി നിങ്ങൾക്ക് ഫ്ലൂറസെൻസ് ഇമേജുകൾ ലഭിക്കുന്നു നിങ്ങൾ കാണുന്നത് ഈ സ്ട്രെസ് ഫൈബറാണ് എ ബി എന്നീ രണ്ട് അറ്റങ്ങളിൽ ഇത് റിലാക്സ് ചെയ്യും അതിനാൽ നിങ്ങൾ ഈ സ്ട്രെസ് ഫൈബറിനെ ലോക്കലി തടസ്സപ്പെടുത്തുമ്പോൾ ഈ പോയിന്റ് ഈ ദിശയിൽക്കൂടി പുറകിലേക്ക് പിൻവലിയുന്നു ജി എന്നത് സമയത്തിന്റെ ഒരു പ്രവർത്തനമെന്ന നിലയിൽ ഞാൻ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു സാച്ചുറേഷൻ പ്രൊഫൈൽ കാണിക്കുന്നു പെട്ടെന്ന് വിടവ് വർദ്ധിക്കുകയും പിന്നീട് അത് ചില മൂല്യങ്ങളിലേക്ക് സാവധാനം വരുകയും ചെയ്യുന്നു മുമ്പത്തെ കേസ് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡാറ്റ ഫിറ്റുചെയ്യാൻ കഴിയും L Da La e tτ എന്ന് പറയട്ടെ നിങ്ങൾക്ക് റിലാക്സേഷന്റെ സമയ സ്ഥിരതയെക്കുറിച്ച് ഒരു ഏകദേശ കണക്ക് നേടാൻ കഴിയും അതിനാൽ നിങ്ങൾ കോശങ്ങളെ കൺട്രാക്റ്റൈൽ അഗോണിസ്റ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു നിയന്ത്രണകോശത്തിൻറെ പ്രതികരണമാണെങ്കിൽ റഫർ സമയം 2806 762 ഉം ബ്ലെബിസ്റ്റാറ്റിനും ഉപയോഗിക്കുമ്പോൾ ഇത് ഗണ്യമായി കുറയുന്നു സിംഗിൾ സ്ട്രെസ് ഫൈബറിലെ കൺട്രാക്റ്റിലിറ്റി എങ്ങനെ മാറ്റപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ഒരു കോശം ഒരു കംപ്ലയിന്റ് സബ്സ്ട്രേറ്റിൽ ഇരിക്കുമ്പോൾ ഒരു സിംഗിൾ സ്ട്രെസ് ഫൈബറിനെ നീക്കം ചെയ്യുന്നതിൻറെ ഫലമായി കോശത്തിനകത്തെ രണ്ടു വ്യത്യസ്ത പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇലാസ്റ്റിക് ലിങ്ക് ആയി സബ്സ്ട്രേറ്റ് പ്രവർത്തിക്കുന്നുവെന്ന് സഞ്ജയ് കുമാർ പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് തെളിയിച്ചു നിങ്ങൾ ഒരു സ്ട്രെസ് ഫൈബർ നീക്കം ചെയ്യുമ്പോൾ ഒരൊറ്റ അബ്ളേഷന്റെ ഫലമായി കോശത്തിനുള്ളിൽ മൊത്തം പുനക്രമീകരണം നടക്കുന്നു പക്ഷേ ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റിൽ കോശം വളർത്തിയെടുക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമാകുന്നു അതിനാൽ ഈ പരീക്ഷണം സൂചിപ്പിക്കുന്നത് സബ്സ്ട്രേറ്റ്ലൂടെ ശക്തികളെ കടത്തിവിടുമ്പോൾ ഇത് ഒരൊറ്റ കോശത്തിലെ ഫോഴ്സ് ബാലൻസ് നിയന്ത്രിക്കുന്നു എന്നാണ് ഇത് നിങ്ങളുടെ ടെൻഷണൽ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ഫോഴ്സ് ബാലൻസ് നിയന്ത്രിക്കുന്നു ചുരുക്കത്തിൽ ഇന്ന് ഞാൻ മൂന്ന് വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ചർച്ചചെയ്തു ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ഡീഅഥീഷൻ ലേസർ അബ്ളേഷൻ traction force microscopy deadhesion and laser ablation തുടങ്ങിയവ ഇവയെല്ലാം സങ്കോചത്തിന്റെ ചില കണക്കുകൾ നൽകുന്നു ഡീഅഥീഷൻ സെൽ ലെവൽ കൺട്രാക്റ്റിലിറ്റി നൽകുന്നു ടിഎഫ്എം കോശത്തിനുള്ളിലെ വിവിധ പോയിന്റുകളിലെ സങ്കോചപരമായ വിവരങ്ങൾ നൽകുന്നു കൂടാതെ ലേസർ അബ്ലേഷൻ ഒരൊറ്റ സ്ട്രെസ് ഫൈബറിന്റെ കൺട്രാക്റ്റിലിറ്റിയെ കുറിച്ച് വിവരം നൽകുന്നു ആദ്യത്തെ രണ്ട് ടെക്നിക്കുകളും അതായത് ഡീഅഥീഷൻ ലേസർ അബ്ലേഷൻ സമയത്തിന്റെ രൂപത്തിൽ വിവരങ്ങൾ നൽകും കുറഞ്ഞ സമയം ഉയർന്ന സങ്കോചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം ടിഎഫ്എമ്മിൽ കോശത്തിനുള്ളിലെ വിവിധ പോയിന്റുകളിൽ പ്രയോഗിക്കുന്ന ശക്തികളുടെ യഥാർത്ഥ എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇതോടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു മറ്റ് രണ്ട് സാങ്കേതിക വിദ്യകളുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരും ഒന്ന് മൈക്രോ ഫാബ്രിക്കേഷൻ മറ്റൊന്ന് ഫ്രറ്റ്